ഹലോ അടിസ്ഥാന ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളെക്കുറിച്ചുള്ള കോഴ്സിലേക്ക് സ്വാഗതം എന്റെ പേര് അങ്കുഷ് ശർമ്മ ഞാൻ ഐഐടി കാൺപൂരിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു അക്കാദമിക് അനുഭവം കൂടാതെ എനിക്ക് ഏകദേശം 18 വർഷമായി ഐടി മേഖലയിൽ പരിചയമുണ്ട് അതിനാൽ അടിസ്ഥാന ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ചില പ്രധാന ആശയങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഈ പ്രത്യേക വിഷയം എന്തുകൊണ്ടാണ് ആവശ്യമെന്ന് പഠിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കാം അതിനാൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രത്യേക വിഷയം പഠിക്കുന്നത് എന്ന ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകാം വൈദ്യുതിയും കാന്തികതയും കാലങ്ങളായി മനുഷ്യർക്ക് അറിയാമായിരുന്നുവെങ്കിലും സാങ്കേതിക വശം അല്ലെങ്കിൽ വൈദ്യുതിയുടെയും കാന്തികതയുടെയും ആശയപരമായ പദ്ധതി 19 ാം നൂറ്റാണ്ടുവരെ വികസിച്ചിരുന്നില്ല എന്ന് നമുക്ക് പറയാം അതിനാൽ വോൾട്ട ഗാൽവാനി തുടങ്ങിയ ശാസ്ത്രജ്ഞർ രാസ പ്രക്രിയകളിൽ നിന്ന് വൈദ്യുതി ഉൽപാദിപ്പിക്കപ്പെടുന്നു എന്ന ആശയം വികസിപ്പിച്ചപ്പോൾ വൈദ്യുതിയുടെ അടിസ്ഥാനങ്ങൾ ചിത്രത്തിലേക്ക് വന്നു ഹെൻറിയെപ്പോലുള്ള മറ്റ് ശാസ്ത്രജ്ഞർ ഇൻഡക്ഷൻ എന്ന ആശയം നൽകി തുടർന്ന് 1873 ഓടെ മാക്സ്വെല്ലിന്റെ സമവാക്യംവൈദ്യുതിയും കാന്തികതയുമായി ബന്ധപ്പെട്ട മുമ്പത്തെ എല്ലാ കൃതികളുടെയും സമാഹാരമായിരുന്ന അത് പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ മാക്സ്വെല്ലിന്റെ വൈദ്യുതി കാന്തിക സമവാക്യങ്ങൾ കണ്ടാൽ അവ കൂടുതലും വൈദ്യുത മണ്ഡലത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് നിങ്ങൾ നിലവിലെ വാണിജ്യ താൽപ്പര്യം പരിശോധിക്കുകയാണെങ്കിൽ അവ കൂടുതലും വോൾട്ടേജിലും കറൻറിലും ആണ് അതുകൊണ്ടാണ് അടിസ്ഥാന ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ നമ്മൾ താൽപര്യപ്പെടുന്നത് ഇവിടെ നമ്മൾ വൈദ്യുത മണ്ഡലത്തേക്കാൾ കൂടുതൽ വോൾട്ടേജും കറൻറും വിശകലനം ചെയ്യാൻ താല്പര്യപ്പെടുന്നു അതിനാൽ ഈ കോഴ്സിൽ നമ്മൾ അടിസ്ഥാന സർക്യൂട്ടുകൾ മനസിലാക്കാനും വൈദ്യുതിയും കാന്തികതയും എന്താണെന്നും അവ വോൾട്ടേജും കറൻറുമായുള്ള ബന്ധവും വിശകലനം ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് കോഴ്സിന്റെ ഉള്ളടക്കത്തിലൂടെ കടന്നുപോകാം ആദ്യ ആഴ്ച അടിസ്ഥാന സർക്യൂട്ട് ഘടകങ്ങളും വേവ്ഫോം ഉം നമുക്ക് ചർച്ച ചെയ്യാം ആഴ്ച 2 ൽ നമുക്ക് മെഷ് നോഡ് വിശകലനം Mesh Node analysis എന്നിവ ചർച്ച ചെയ്യാം നെറ്റ്വർക്ക് സിദ്ധാന്തങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് നമുക്ക് അറിയുന്നതുകൊണ്ട് നെറ്റ്വർക്ക് സിദ്ധാന്തങ്ങൾക്കായി അടുത്ത 2 ആഴ്ച നമുക്ക് നീക്കി വെക്കാം 1st ഓർഡറും ഉം 2nd ഓർഡറും നെറ്റ്വർക്കുകളും അതിനുശേഷം ചർച്ച ചെയ്യും ലാപ്ലേസ് പരിവർത്തനവും അതിന്റെ പ്രയോഗവും ആറാമത്തെ ആഴ്ചയിൽ ചർച്ച ചെയ്യും ഏഴാമത്തെ ആഴ്ചയിൽ ലാപ്ലേസ് ഉപയോഗിച്ച് സർക്യൂട്ട് വിശകലനം നമുക്ക് ചർച്ച ചെയ്യാം 8 ാം ആഴ്ചയിൽ നമുക്ക് 2 പോർട്ട് നെറ്റ്വർക്കുകളെക്കുറിച്ച് സംസാരിക്കാം കാരണം ഇലക്ട്രിക് സർക്യൂട്ടുകളിലെ പ്രധാന ഘടകമാണ് സിനുസോയിഡല് വിശകലനം നമുക്ക് സിനുസോയിഡല് സ്ഥിരാവസ്ഥ വിശകലനത്തിനുവേണ്ടി കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും നീക്കി വെക്കാം അപ്പോൾ വൈദ്യുതിയും മറ്റ് തരത്തിലുള്ള സിസ്റ്റങ്ങളും തമ്മിലുള്ള ബന്ധം നമുക്ക് കാണാം ഇവിടെ നമുക്ക് വൈദ്യുതിയും മറ്റ് സമാന സംവിധാനങ്ങളും തമ്മിലുള്ള സാമ്യത സ്ഥാപിക്കുകയും അവസാനമായി സ്റ്റേറ്റ് വേരിയബിൾ വിശകലനത്തെകുറിച്ച് സംസാരിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന റഫറൻസ് പുസ്തകങ്ങളാണ് Charles Alexander ഉം Matthew Sadiku ഉം എഴുതിയ 'Fundamentals of Electric Circuits' മാത്രമല്ല Van Valkenburg എഴുതിയ 'Network Analysis' ഉം D Roy Choudhury എഴുതിയ 'Network and Systems' എന്നീ പുസ്തകങ്ങളും നിങ്ങൾക്ക് പിന്തുടരാം ഇപ്പോൾ ഈ സെഷനിൽ നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടുകളുടെ അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം അപ്പോൾ എന്തൊക്കെയാണ് ആ ആശയങ്ങൾ ആദ്യം നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം ഇലക്ട്രിക് സർക്യൂട്ട് ഒന്നുമല്ല എന്നാൽ വൈദ്യുത മൂലകങ്ങളുടെ പരസ്പര ബന്ധമാണ് ഒരു വോൾട്ടേജ് ഉറവിടം വിളക്ക് വയറുകൾ എന്നിവ മാത്രമുള്ള ഒരു ഫ്ലാഷ് ലൈറ്റിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനാകും അതിനാൽ ഇത് ഒരു ലളിതമായ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണ് എന്നാൽ വാസ്തവത്തിൽ അത്തരം ലളിതമായ സർക്യൂട്ട്കൾ നിങ്ങൾ കാണില്ല പകരം ഒന്നിലധികം ഘടകങ്ങളുള്ള സങ്കീർണ്ണമായ സർക്യൂട്ട്കൾ നിങ്ങൾക്ക് കാണാനാകും അതിനാൽ ഈ കോഴ്സിൽ സർക്യൂട്ടിന്റെ സ്വഭാവം പഠിച്ചുകൊണ്ട് സർക്യൂട്ട് വിശകലനം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം എന്തുകൊണ്ടാണ് നമുക്ക് സ്വഭാവം പഠിക്കേണ്ടത് അത് നൽകിയ ഇന്പുട്ടിനോട് സർക്യൂട്ട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നമുക്ക് മനസിലാക്കാൻ വേണ്ടിയാണ് ഒരു പ്രത്യേക നെറ്റ്വർക്കിലേക്ക് നിങ്ങൾ ഇൻപുട്ട് നൽകുമ്പോൾ നിങ്ങൾ നൽകിയ ഇൻപുട്ട് അടിസ്ഥാനമാക്കി ഇത് പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് കാണാനാകും അതിനാൽ ഇൻപുട്ടും പ്രതികരണവും തമ്മിലുള്ള ബന്ധം എങ്ങനെയെങ്കിലും സ്ഥാപിക്കേണ്ടതുണ്ട് തുടർന്ന് സർക്യൂട്ടിലെ വിവിധ ഘടകങ്ങൾ എങ്ങനെ ഇടപെടുന്നു എന്നും നമുക്ക് കാണാം ഇനി നമുക്ക് ചാർജിനെക്കുറിച്ച് സംസാരിക്കാം എന്താണ് ചാർജ് ആറ്റങ്ങളാൽ നിർമ്മിതമായ പദാർത്ഥത്തിൻറെ വൈദ്യുത സവിശേഷതയാണ് ചാർജ് അതിനാൽ നിങ്ങൾക്ക് ചുറ്റും എന്തെങ്കിലും കണ്ടാൽ അത് തന്മാത്രകൾ ചേർന്നതാണ് തുടർന്ന് ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത് ആറ്റത്തിന് ഉള്ളിൽ ഇലക്ട്രോണുകൾ പ്രോട്ടോണുകൾ ന്യൂട്രോണുകൾ എന്നിവയുണ്ട് അതിനാൽ അടിസ്ഥാനപരമായി ഓരോ ആറ്റത്തിലും 3 പ്രധാന ഘടകങ്ങൾ അടങ്ങിയിരിക്കും അവ ഇലക്ട്രോണുകൾ പ്രോട്ടോണുകൾ ന്യൂട്രോണുകൾ എന്നിവയാണ് എല്ലാ വൈദ്യുത പ്രതിഭാസങ്ങളും വിശദീകരിക്കാൻ ആവശ്യമായ സർക്യൂട്ടിന്റെ ഏറ്റവും അടിസ്ഥാന അളവാണ് ഇലക്ട്രിക് ചാർജ് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്ജ് ആണെന്നും ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്ജ് കണങ്ങളാണെന്നും നിങ്ങൾക്കറിയാം ഓരോ ഇലക്ട്രോണിനും 1 602 ∗ 10 19 കൂലോംബുകൾക്ക് തുല്യമായ ചാർജ് ഉണ്ടായിരിക്കും കാരണം ഇലക്ട്രിക് കൂലോംബുകൾ ഉപയോഗിച്ചാണ് ചാർജ് അളക്കുന്നത് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്ജ് ആണ് ഇതിന് ഇലക്ട്രോണിന്റെ അതേ മൂല്യം ഉണ്ടെങ്കിലും പോസിറ്റീവ് ചിഹ്നത്തോടുകൂടിയാണ് ഉള്ളത് അതായത് 1 602 ∗ 10 19 ഇപ്പോൾ 1 കൂലോംബ് ചാർജിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ 1 നെ 1 602 ∗ 10 19 കൊണ്ട് ഹരിക്കും നിങ്ങൾക്ക് കൂലോംബ് ചാർജിൽ 6 24 ∗ 1018 ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് ലഭിക്കും ഇനി വൈദ്യുത ചാർജ് സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ലെന്ന് പറയുന്ന സംരക്ഷണ നിയമം പാലിക്കുന്നു ഇപ്പോൾ വൈദ്യുത പ്രവാഹത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കാരണം വൈദ്യുത പ്രവാഹം ഒരു പ്രത്യേക ഘടകത്തിൽ ഒഴുകുന്ന ചാർജിൽ നിന്ന് ഉണ്ടായതാണ് ഈ ചിത്രത്തിൽ ബാറ്ററി emf ൻറെ ഉറവിടമായി പ്രവർത്തിക്കും ഇപ്പോൾ നിങ്ങൾ ഒരു ബാറ്ററിയിലേക്ക് ഒരു ചാലക വയർ ബന്ധിപ്പിക്കുമ്പോൾ അത് ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങുന്ന ഇലക്ട്രോണിന് കാരണമാകും ചാർജിൻറെ ഈ ചലനം ഇലക്ട്രിക് കറൻറ് എന്ന പ്രതിഭാസo സൃഷ്ടിക്കുന്നു ഒരു ലോഹ ചാലകത്തിലെ കറൻറ് ഇലക്ട്രോണുകളുടെ ഒഴുക്ക് മൂലമാണെങ്കിലും പരമ്പരാഗതമായി അത് പോസിറ്റീവ് ചാർജിന്റെ നെറ്റ് ഫ്ലോ ആയി കണക്കാക്കുന്നു അതിനാൽ വൈദ്യുത പ്രവാഹം ഇലക്ട്രോണുകളുടെ ഒഴുക്കിന്റെ ദിശയ്ക്ക് വിപരീതമാണ് എന്ന് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഇതാണ് വൈദ്യുത പ്രവാഹം നിർവചിക്കുമ്പോൾ നമ്മൾ പിന്തുടരുന്ന കൺവെൻഷൻ ഇപ്പോൾ വൈദ്യുത പ്രവാഹത്തെ ചാർജിന്റെ മാറ്റത്തിൻറെ നിരക്ക് എന്ന് നിർവചിക്കാൻ കഴിയുന്നതിനാൽ നിങ്ങൾക്ക് ലളിതമായി I dq dt എന്ന് ചെയ്യാനാകും ഒരു യൂണിറ്റ് സമയത്തിനുള്ളിൽ ഒരു പ്രത്യേക ഉപരിതലത്തിലൂടെ ഒഴുകുന്ന ചാർജിന്റെ അളവായാണ് ഇതിനെ നിർവചിച്ചിരിക്കുന്നത് കറൻറ് ആമ്പിയർ ഉപയോഗിച്ചാണ് പ്രകടിപ്പിക്കുന്നത് 1 ആമ്പിയർ എന്നാൽ സെക്കൻഡിൽ 1കൂലോംബ് ആയി നിർവചിക്കപ്പെടുന്നു ഇപ്പോൾ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ 𝑡0 മുതൽ t വരെ എത്ര ചാർജ് ഒരു പ്രത്യേക ഉപരിതലത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ മുകളിലുള്ള സമവാക്യം ഇന്റഗ്രേറ്റ് ചെയ്തു കൊണ്ട് നിങ്ങൾക്ക് വിലയിരുത്താനാകും അതിനാൽ നിങ്ങൾക്ക് Q ആയി ലഭിക്കും ഇപ്പോൾ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എടുക്കാം അതുവഴി നിങ്ങൾക്ക് ആശയം നന്നായി മനസ്സിലാക്കാൻ കഴിയും നമുക്ക് എടുക്കാം ഉദാഹരണത്തിന് 4600 ഇലക്ട്രോണുകൾ എത്ര ചാർജിനെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ1 ഇലക്ട്രോണിന്റെ ചാർജ് −1 602 ∗ 10 19 ആണെന്ന് നിങ്ങൾക്കറിയാം എന്നതിനാൽ 4600 ഇലക്ട്രോണുകളുടെ മൊത്തം ചാർജി നായി 4600 നെ −1 602 ∗ 10 19 കൊണ്ട് ഗുണിക്കുക അതിനാൽ നിങ്ങൾക്ക് മൈനസ് −7 639 ∗ 10−16 കൂലോംബ് ലഭിക്കും ഇപ്പോൾ അതിനു വിപരീതമായി 6 ദശലക്ഷം പ്രോട്ടോണുകൾ എത്ര ചാർജ് പ്രതിനിധീകരിക്കുന്നുവെന്ന് കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം പ്രോട്ടോണിന് 1 602 ∗ 10 19 ചാർജ് ഉണ്ടാകും ഇപ്പോൾ 6 ദശലക്ഷം പ്രോട്ടോണുകൾക്ക് 1 602 ∗ 10 19 കൊണ്ട് ഗുണിക്കുന്നു അതായത് ഓരോ പ്രോട്ടോണിനും കൂലോംബ് ചാർജിനെ 6 ∗ 106 കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് 9 612 ∗ 10−13 കൂലോംബ് ലഭിക്കും നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഇപ്പോൾ ഒരു ടെർമിനലിൽ പ്രവേശിക്കുന്ന മൊത്തം ചാർജ് q5𝑡 sin 4𝜋𝑡 mC എന്ന് നൽകിയിരിക്കുന്നു കറൻറ് എങ്ങനെ കണക്കാക്കും നിങ്ങൾക്ക് അറിയാം നിലവിലെ കറൻറ് 𝑖 𝑑𝑞𝑑𝑡 അതായത് ലളിതമായി ചാർജ് q നെ സമയം t ഉപയോഗിച്ച് ഡിഫറൻഷിയേററ് ചെയ്യണം അപ്പോൾ 𝑑𝑑𝑡 5𝑡 sin 4𝜋𝑡 എന്ന് നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ അത് കേവലം 5 sin 4𝜋𝑡 20𝜋𝑡 cos 4𝜋𝑡 ആണ് ഇത് ചോദ്യത്തിൽ നൽകിയ കൂലോംബ് ചാർജിൻറെ ഡെറിവേറ്റീവ് ആണ് ഇപ്പോൾനമുക്ക് t 0 5 സെക്കൻഡ് സമയത്തെ കറൻറ് കണക്കാക്കണം ഇതിനർത്ഥം നിലവിലെ കറൻറ് ൻറെ മൂല്യം എന്തായാലും t ക്ക് പകരം 0 5 മാറ്റി എക്സ്പ്രഷനുകൾ കണ്ടുപിടിക്കാം അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും കറൻറ് 𝑖 31 42mA ഇപ്പോൾഈ ഉദാഹരണത്തിൽ ചാർജ്ജ് നൽകുന്നതിനുപകരം കറൻറ് നൽകിയിട്ടുണ്ടെങ്കിൽ അതായത് 𝑖 3𝑡2 − 𝑡A ഇനി നമുക്ക് ഒരു ഇലക്ട്രിക്കൽ ടെർമിനലിൽ t 1 സെക്കൻഡ് മുതൽ t 2 സെക്കൻഡ് സമയം വരെ പ്രവേശിക്കുന്ന മൊത്തം ചാർജ് കണ്ടെത്തണം അത് കണ്ടുപിടിക്കാൻ സമയം t 1s നും 𝑡 2s നും ഇടയിലുള്ള നിലവിലെ കറൻറ്ൻറെ ഇൻററഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ I ടെ മൂല്യം 3𝑡2 − 𝑡 കൊടുത്തു കണ്ടുപിടിക്കുക യാണെങ്കിൽ നിങ്ങൾക്ക് 1 സെക്കൻറ് മുതൽ 2 സെക്കൻറ് വരെ ഒരു ടെർമിനലിൽ പ്രവേശിക്കുന്ന ചാർജിൻറെ അളവ് ലഭിക്കും ഇത് 5 5 കൂലോംബ് ആണ് ഇപ്പോൾ നമുക്ക് വോൾട്ടേജിനെക്കുറിച്ച് സംസാരിക്കാം ഇലക്ട്രോണുകൾ ഒരു പ്രത്യേക ദിശയിൽ നീക്കാൻ ഊർജ്ജ കൈമാറ്റം അല്ലെങ്കിൽ വർക്ക് ആവശ്യമാണ് അപ്പോൾ ആരാണ് ഈ ഊർജ്ജo നൽകുന്നത് ഈ ഊർജ്ജം നൽകുന്നത് ബാറ്ററി നൽകുന്ന ബാഹ്യ emf ആണ് അതിനാൽ ഇലക്ട്രോണുകളെ ഒരു വശത്തുനിന്ന് മറുവശത്തേക്ക് നീക്കാൻ ബാറ്ററികൾ പ്രവർത്തിക്കും ഈ emf വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നും അറിയപ്പെടുന്നു അപ്പോൾ എങ്ങനെ നിങ്ങൾ വോൾട്ടേജിനെ നിർവചിക്കും ഒരു ഘടകത്തിലൂടെ യൂണിറ്റ് ചാർജ് നീക്കാൻ ആവശ്യമായ ഊർജ്ജമായി വോൾട്ടേജ് നിർവചിക്കപ്പെടും നിങ്ങൾ ഈ ചിത്രം കാണുകയാണെങ്കിൽ ഇവിടെ പ്രതിനിധീകരിക്കുന്ന ഘടകത്തിന് രണ്ട് ടെർമിനലുകളുണ്ട് ഒന്ന് പോസിറ്റീവ്ഒന്ന്പോസിറ്റീവ് ആണ് മറ്റൊന്ന് നെഗറ്റീവ് ആണ് ഒരു ടെർമിനലിനെ എ എന്നും മറ്റൊന്ന് ബി എന്നും കാണിച്ചിരിക്കുന്നു അതിനാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം അതായത് വോൾട്ടേജ് 𝑣𝑎𝑏 ആയി തന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് 𝑣𝑎𝑏 യുടെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾ എന്തു ചെയ്യും 1 യൂണിറ്റ് ചാർജ് പോയിൻറ് എ മുതൽ പോയിൻറ് ബി വരെ വരെ നീക്കുന്നതിന് ഈ ഘടകവുമായി ബാഹ്യമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബാറ്ററി ചെയ്യുന്ന വർക്ക് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും അതിനാൽ നിങ്ങൾ ഇത് എങ്ങനെ ഗണിതശാസ്ത്രപരമായി പ്രകടിപ്പിക്കും ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറയാം 𝑣𝑎𝑏 എന്നാൽ മറ്റൊന്നുമല്ല 𝑑𝑤 𝑑𝑞 അതായത് ചെയ്ത വർക്കിനെ നെ യൂണിറ്റ് ചാർജ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കൊണ്ട് ഹരിക്കുന്നു അതിനാലാണ് നമ്മൾ ഇതിനെ 𝑑𝑞 എന്ന് പ്രതിനിധീകരിക്കുന്നത് ഇപ്പോൾ 𝑣𝑎𝑏 വോൾട്ട് ആയി പ്രതിനിധീകരിക്കുന്നു ജൂൾസ് ഉപയോഗിച്ചാണ് ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നത് q നമ്മൾ സാധാരണയായി പ്രതിനിധീകരിക്കുന്ന ചാർജാണ് ഇപ്പോൾ 1 വോൾട്ട് എങ്ങനെ നിർവചിക്കപ്പെടുന്നു 1 വോൾട്ട് എന്നത് 1 കുളുംബിലെ ജൂൾസ് ആണ് അതായത് 1ജൂൾ ആയ 1 കുളുംബിലെ ന്യൂട്ടൻ മീറ്റർ 1 ന്യൂട്ടൻ മീറ്റർ കൂടിയാണ് ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചിഹ്നങ്ങൾക്ക് അതിൻറെതായ പ്രാധാന്യം ഉണ്ട് കാരണം നിങ്ങൾ ചിഹ്നം മാറ്റുമ്പോൾ 𝑣𝑎𝑏 ക്ക് വിപരീതമാകും ലഭിക്കുക അതിനാൽ നിങ്ങൾ മുമ്പത്തെ ചിത്രത്തിൽ ടെർമിനലുകളിൽ പ്ലസ് ചിഹ്നത്തിനു പകരം മൈനസ് ചിഹ്നവും മൈനസ് ചിഹ്നത്തിനു പകരം പ്ലസ് ചിഹ്നവും മാറ്റിയാൽ 𝑣𝑎𝑏 ഈ പ്രത്യേക കേസിൽ നമ്മൾ മുൻപ് കണക്കാക്കിയതിന് വിപരീതമായിരിക്കും ഇപ്പോൾ ഈ തരത്തിൽ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് 𝑣𝑎𝑏 ക്ക് വിപരീതമായി 𝑣𝑏𝑎 ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും 𝑣𝑎𝑏 എന്നാൽ മറ്റൊന്നുമല്ല 𝑣𝑏𝑎 യുടെ മൈനസ് ആണ് അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ ഘടകത്തിൻറെ ടെർമിനലുകൾ പരസ്പരം കൈമാറ്റം ചെയ്യുകയാണ് ഒടുവിൽ നിങ്ങൾക്ക് മുമ്പത്തെ ചിത്രത്തിൽ കാണിച്ചതിന്റെ നെഗറ്റീവ് ലഭിക്കും അതിനാൽ സർക്യൂട്ട് സിദ്ധാന്തത്തിൽ നമ്മൾ പൊതുവെ ഉത്തരങ്ങൾ വ്യക്തമാക്കുന്നതുവരെ വോൾട്ടേജിന്റെയും കറന്റിന്റെയും രൂപത്തിൽ പ്രതിനിധീകരിക്കുന്നുകാരണം ഇവയാണ് നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിലെ രണ്ട് അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ എപ്പോഴും ഔട്ട്പുട്ട് ആയി വോൾട്ടേജും കറണ്ടും മാത്രമല്ല എടുക്കുന്നത് ചിലപ്പോൾ നമുക്ക് പവറും ഊർജ്ജവും ഔട്ട്പുട്ട് ആയി ആവശ്യമാണ് അതിനാൽ പ്രായോഗിക ആവശ്യത്തിനായി നാം എത്രമാത്രം പവർ ഒരു ഇലക്ട്രിക് ഉപകരണത്തിന് കൈകാര്യം ചെയ്യാനാകും എന്ന് അറിയേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ വൈദ്യുതി ബിൽ അടയ്ക്കുമ്പോൾ നിങ്ങൾ എത്ര യൂണിറ്റുകൾ ഉപയോഗിച്ചു എന്ന രൂപത്തിൽ ആണ് വൈദ്യുതി ബിൽ ലഭിക്കുന്നത് 1 യൂണിറ്റ് 1 കിലോവാട്ട് ഹവർ ന് തുല്യമാണ് 1 കിലോവാട്ട് എന്നാൽ പവറിനെ നിങ്ങൾ ഉപയോഗിക്കുന്ന കാലയളവിനാൽ ഗുണിച്ച വൈദ്യുതി എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഒരു പ്രത്യേക ഈ സമയത്ത് നിങ്ങൾ എത്രമാത്രം ഊർജ്ജം ഉപയോഗിച്ചു എന്നു കണ്ടെത്തുന്നതിന് ചിലപ്പോൾ നിങ്ങൾക്ക് പവർ കാൽക്കുലേഷൻ ആവശ്യമാണെന്നാണ് ഇതിനർത്ഥം നിങ്ങൾ എത്രത്തോളം ഊർജ്ജം ഉപയോഗിച്ചുവെന്ന് അറിയാൻ ഉപയോഗ സമയദൈർഘ്യത്തെ പവർ കൊണ്ട് ഗുണിക്കുക അതിനാലാണ് നിങ്ങളുടെ ദൈനംദിന വൈദ്യുതി ബിൽ കണക്കുകൂട്ടലിന് നിങ്ങൾക്ക് ഊർജ്ജവും പവറും കണക്കാക്കേണ്ടതുള്ളത് അതിനാൽ ഊർജ്ജവും പവറും നമ്മുടെ സർക്യൂട്ട് വിശകലനത്തിന് പ്രധാന ഭാഗങ്ങളാണ് ഇപ്പോൾ ഊർജ്ജവും പവറും എങ്ങനെ കണക്കാക്കാമെന്ന് നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം കാരണം ഇവ വോൾട്ടേജിൽ നിന്നും കറൻറിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് അതിനാൽ നമ്മൾ എങ്ങനെ കണക്കാക്കും പവർ എന്നാൽ ഊർജ്ജം വികസിപ്പിക്കുന്നതിനോ ആഗിരണം ചെയ്യുന്നതിനോ ഉള്ള സമയനിരക്ക് ആണ് അതിനാൽ ഗണിതശാസ്ത്രപരമായി നമുക്ക് 𝑝 ≜𝑑𝑤𝑑𝑡 എന്ന് പ്രതിനിധീകരിക്കാം അതായത് ഊർജ്ജ മാറ്റത്തിന്റെ നിരക്ക് പവർ വാട്ടിൽ അളക്കുകയും ഊർജ്ജം ജൂൾസിൽ അളക്കുകയും ചെയ്യുന്നു ഇപ്പോൾ പവർ p യുടെ മൂല്യം രണ്ട് അടിസ്ഥാന അളവുകളുടെ രൂപത്തിൽ കണ്ടെത്തണമെങ്കിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത അതായത് വോൾട്ടേജും കറന്റും പവർ p യുടെ മൂല്യം നിങ്ങൾ എങ്ങനെ കണ്ടെത്തും നിങ്ങൾ 𝑝 ≜ 𝑑𝑤𝑑𝑡 എന്ന സമവാക്യം കാണൂ ഇപ്പോൾ നിങ്ങൾ 𝑑𝑤𝑑𝑡 𝑑𝑤𝑑𝑞 𝑑𝑞𝑑𝑡 എന്ന രൂപത്തിൽ പ്രകടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പവർ p യുടെ എക്സ്പ്രഷൻ വോൾട്ടേജിന്റെയും കറണ്ടിൻറെയും രൂപത്തിൽ ലഭിക്കും 𝑑𝑤𝑑𝑞 എന്നാൽ മുൻപ് സ്ലൈഡിൽ ചർച്ച ചെയ്ത വോൾട്ടേജല്ലാതെ മറ്റൊന്നുമല്ല കറൻറ് എന്നാൽ ഒരു പ്രത്യേക ഘടകത്തിലൂടെ കടന്നുപോകുന്ന ചാർജ് മാറ്റത്തിന്റെ നിരക്ക് മാത്രമാണ് അതിനാൽ ഇതിലൂടെ നിങ്ങൾക്ക് p യുടെ മൂല്യം വോൾട്ടേജിന്റെയും വൈദ്യുതധാരയുടെയും ഗുണനമായി കണക്കാക്കാം അതിനാൽ ഒരു ഘടകം എത്രമാത്രം ഊർജ്ജം ആഗിരണം ചെയ്യുന്നു അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നുവെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും കാരണം ഇത് ഘടകത്തിൽ ഉടനീളമുള്ള വോൾട്ടേജിൻറെയും കറണ്ടിൻറെയും ഗുണനമാണ് പക്ഷേ പവർ പി എന്നത് അളവനുസരിച്ച് വ്യത്യാസപ്പെടുന്ന സമയമാണെന്നും തൽക്ഷണ പവർ എന്ന് വിളിക്കപ്പെടേണ്ടതാണെന്നും നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് അതിനാൽ സിനുസോയ്ഡൽ തരംഗരൂപങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ചചെയ്യുമ്പോൾ നമ്മൾ തൽക്ഷണ ശക്തിയും ശരാശരി ശക്തിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും കാരണം അതും ഡിസി വൈദ്യുത പ്രവാഹങ്ങളേക്കാൾ എസി വൈദ്യുത പ്രവാഹങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ആശയം ആണ് പവർ പി എന്നത് വോൾട്ടേജിന്റെയും വൈദ്യുതധാരയുടെയും ഉൽപ്പന്നമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നിങ്ങൾക്ക് പറയാം ഡിസി കറൻറിനെ സംബന്ധിച്ചിടത്തോളം പവർ പി എന്നത് വോൾട്ടേജിന്റെയും കറണ്ടിൻറെയും ഗുണനം അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ എസിയിൽ അതല്ല കുറഞ്ഞത് ശരാശരി പവറും ഇത് അങ്ങനെയല്ല തുടരുന്നത് തൽക്ഷണ ശക്തി തീർച്ചയായും തൽക്ഷണ വോൾട്ടേജിൻറെയും തൽക്ഷണ കറണ്ടിൻറെയും ഗുണനം ആയിരിക്കും ഇപ്പോൾ പവറിന് പോസിറ്റീവ് ചിഹ്നമുണ്ട് അതിനർത്ഥം ഒരു ഘടകം പവർ കൈമാറ്റം ചെയ്യുകയോ ആഗിരണം ചെയ്യുകയോ ചെയ്യുന്നു എന്നാണ് അതിനാൽ ഇപ്പോൾ ഈ പ്രത്യേക ചിത്രം നോക്കുക ഉണ്ട് കറൻറ് പോസിറ്റീവ് ടെർമിനലിന് ഉള്ളിലൂടെ ഒഴുകുന്നുവെങ്കിൽ ആ പ്രത്യേക മൂലകത്താൽ പവർ ആഗിരണം ചെയ്യപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ കറൻറ് പോസിറ്റീവ് മൂലകത്തിൽ നിന്ന് പുറത്തുവരുന്നു എങ്കിൽ ആ മൂലകത്താൽ പവർ വിതരണം ചെയ്യപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് പറയാം അതിനാലാണ് ഈ എക്സ്പ്രഷനിൽ നെഗറ്റീവ് ചിഹ്നം വരുന്നത് അതിനാൽ സൈൻ കൺവെൻഷൻ മനസിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണം അടയാളങ്ങളെ ശരിയായി പ്രതിനിധീകരിക്കുന്നതിൽ നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ പവറിന്റെ മൂല്യം കണക്കാക്കുന്നതിൽ ചില തെറ്റുകൾ ഉണ്ടാകാം ഇപ്പോൾ വോൾട്ടേജ് പൊളാരിറ്റിയും കറൻറിൻറെ ദിശയും മുമ്പത്തേതിൽ കാണിച്ചിരിക്കുന്നതുപോലെ സ്ഥിരീകരിക്കണം അതിനാൽ ഈ പ്രത്യേക ചിഹ്ന കൺവെൻഷനുകൾ നമ്മൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു ഈ ചിഹ്ന കൺവെൻഷൻ പാസീവ് സൈൻ കൺവെൻഷൻ എന്നറിയപ്പെടുന്നു പോസിറ്റീവ് വഴി കറന്റ് പ്രവേശിക്കുമ്പോൾ അത് സംതൃപ്തമാണ് പവർ ഉപഭോഗം പോസിറ്റീവ് ആണ് കറൻറ് എലമെൻറിൻറെ നെഗറ്റീവ് ടെർമിനലിലൂടെ പ്രവേശിക്കുമ്പോൾ പവർ പി എന്നത് −𝑣 𝑖 ആണ് ഇതിനർത്ഥം ഈ എലമെൻറ് പവർ വിതരണം ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ഈ പ്രത്യേക വശം സംരക്ഷണ നിയമം പിന്തുടരുo ഇതിനർത്ഥം ഒരാൾ വിതരണം ചെയ്യണം മറ്റുള്ളവർ പവർ ഉപയോഗിക്കണം എന്നാണ് ഇക്കാരണത്താൽ നിങ്ങളുടെ സർക്യൂട്ടിലെ പവറിൻറെ ആകെത്തുക എല്ലായ്പ്പോഴും 0 ആയിരിക്കും ഇപ്പോൾ 𝑡0 മുതൽ 𝑡 വരെ ഉള്ള ചില ഘടകങ്ങൾ നൽകിയാൽ ആഗിരണം അല്ലെങ്കിൽ വിതരണം ചെയ്യപ്പെടുന്ന ഊർജ്ജ ത്തിൻറെ മൂല്യം കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുവെന്ന് കരുതുക നിങ്ങൾ എങ്ങനെ കണക്കാക്കും നിങ്ങൾ ലളിതമായി 𝑡0 മുതൽ 𝑡 വരെയുള്ള സമയത്തെ പവർ ഇൻററഗ്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് മുമ്പത്തെ സ്ലൈഡിൽ ചർച്ച ചെയ്ത കൺവെൻഷനെ അടിസ്ഥാനമാക്കി എലമെൻറ് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്ന ഊർജ്ജത്തിൻറെ മൂല്യം ലഭിക്കും അപ്പോൾ ഊർജ്ജം എന്താണ് ഊർജ്ജം എന്നത് ചില വർക്ക് ചെയ്യാനുള്ള ശേഷിയല്ലാതെ മറ്റൊന്നുമല്ല അത് ജൂൾസിൽ അളക്കുന്നു ഇപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങൾ എടുക്കാം അതുവഴി നിങ്ങൾക്ക് പവറിൻറെയും ഊർജ്ജത്തിൻറെയും ആശയം നന്നായി മനസ്സിലാക്കാൻ കഴിയും ചോദ്യം ഇതുപോലെ നൽകിയിട്ടുണ്ടെന്ന് കരുതുക ഒരു ഊർജ്ജസ്രോതസ്സ് 2 ആമ്പിയറിന്റെ സ്ഥിരമായ കറൻറിനെ ഒരു ലൈറ്റ് ബൾബിലൂടെ 10 സെക്കൻഡ് കടത്തിവിടുന്നു 3 കിലോ ജൂൾ പ്രകാശത്തിന്റെയും താപ ഊർജ്ജത്തിൻറെ രൂപത്തിലും ആണ് തന്നിരിക്കുന്നത് എങ്കിൽ ബൾബിലുടനീളം വോൾട്ടേജ് നഷ്ടം എന്താണ് ഇപ്പോൾ എന്താണ് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് കറൻറ് ലഭിച്ചു നിങ്ങൾക്ക് ∆𝑡 എന്ന സമയം ലഭിച്ചു കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിച്ച ഊർജ്ജത്തിൻറെ മൂല്യവും ലഭിച്ചു അതിനാൽ ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് ഓർക്കണം അതായത് ആ പ്രത്യേക എലമെൻറിലൂടെ ഒഴുകുന്ന ചാർജുകളുമായി ബന്ധപ്പെട്ട് ഊർജ്ജമാറ്റമല്ലാതെ മറ്റൊന്നുമില്ല ഇപ്പോൾ ഈ പ്രത്യേക അളവ് ഈ ചോദ്യത്തിൽ നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് ∆𝑞 ൻറെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് Δ𝑞 എന്നാൽ കറൻറിൻറെയും സമയത്തിൻറെയും ഗുണിതം അല്ലാതെ മറ്റൊന്നുമല്ല സമയം 10 സെക്കൻഡായി നൽകിയിരിക്കുന്നു എലമെൻറിലൂടെ ഒഴുകുന്നത് 2 ആമ്പിയർ കറൻറ് ആണ് ഇതിനർത്ഥം 20 കൂലോംബ് ചാർജ് എലമെൻറിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ഈ മൂല്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് എലമെൻറിലുടനീളം ഉള്ള വോൾട്ടേജ് നഷ്ടത്തിൻറെ മൂല്യം കണക്കാക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ എലമെൻറ് ലൈറ്റ് ബൾബാണ് അതിനാൽ ലൈറ്റ് ബൾബിനു കുറുകെ ഉള്ള വോൾട്ടേജ് നഷ്ടം 115 വോൾട്ട് ആയിരിക്കും ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഒരു എലിമെൻറിലേക്ക് t3 മില്ലി സെക്കൻഡ് എന്ന സമയം കൈമാറിയ പവർ കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ പോസിറ്റീവ് മൂലകത്തിലേക്ക് പ്രവേശിക്കുന്ന കറൻറ് 5 cos 60𝜋𝑡 A ഉം വോൾട്ടേജ് v എന്നത് 3i ഉം ആണ് അതിനാൽ 3i എന്നാൽ കറൻറിനെ ആശ്രയിച്ചിരിക്കും വോൾട്ടേജ് അതിനാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് നിങ്ങൾ ആദ്യം വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ കണ്ടെത്തണം അപ്പോൾ വോൾട്ടേജ്എന്നത് 3i ആണ് അതായത് കറൻറ് i ടെ മൂല്യം 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അത് 15 cos 60𝜋𝑡 ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ പവറിൻറെ മൂല്യം 𝑝 𝑣𝑖 കണ്ടുപിടിക്കണം അതിനാൽ അത് 75 cos2 60𝜋𝑡 ആയി മാറുന്നു ഇപ്പോൾ t 3 മില്ലി സെക്കൻഡ് സമയത്ത് ഒരു എലിമെൻറിന് നൽകുന്ന പവർ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനർത്ഥം നിങ്ങൾ t 3 മില്ലി സെക്കൻഡ് ഉപയോഗിച്ച് മാറ്റുക എന്നാണ് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു എലിമെൻറിലേക്ക് എത്തിച്ച പവർ 53 48 വാട്ട് ആയി ലഭിക്കും ഇപ്പോൾ മുമ്പത്തെ ചോദ്യത്തിൽ വോൾട്ടേജ് 3i ക്ക് പകരം വോൾട്ടേജ് 3𝑑𝑖𝑑𝑡 യും സമയം വീണ്ടും 3 മില്ലി സെക്കൻഡും മറ്റെല്ലാ കാര്യങ്ങളും സമാനമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കണക്കാക്കും ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വോൾട്ടേജിൻറെ മൂല്യം കറൻറ് i യുടെ മൂല്യം ഡിഫറൻഷിയേററ് ചെയ്തുകൊണ്ട് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ നമ്മൾ കണ്ട മുൻപത്തെ ഉദാഹരണത്തിലെ കറൻറ് i 5 cos 60𝜋𝑡 ആയിരുന്നു അതിനാൽ നിങ്ങൾ ഡിഫറൻഷിയേററ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് −60𝜋5 sin 60𝜋𝑡 ലഭിക്കും ഇതിലൂടെ നിങ്ങൾക്ക് വോൾട്ടേജ് v യുടെ മൂല്യം −900𝜋 sin 60𝜋𝑡 ആയി ലഭിക്കും പക്ഷേ പവർ 𝑝 𝑣𝑖 ആണ് മുൻപത്തെ ഉദാഹരണത്തിലെ കറൻറിൻറെ എക്സ്പ്രഷൻ ആയി നിങ്ങൾ വോൾട്ടേജ് v കൊണ്ട് ഗുണിക്കണം നമുക്ക് 𝑝 𝑣𝑖 −4500 sin 60𝜋𝑡 cos 60𝜋𝑡 W ലഭിക്കും ഇപ്പോൾ t 3 മില്ലി സെക്കൻഡ് സമയത്തെ മൂല്യം ലഭിക്കാനായി നിങ്ങൾ t മാറ്റി 3 മില്ലി സെക്കൻഡ് പകരം വയ്ക്കണം ഇതുവഴി നിങ്ങൾക്ക് മൂല്യം മൈനസ് 6 396 കിലോവാട്ട് ലഭിക്കും ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ നിങ്ങൾ കാണുന്ന വിവിധ സർക്യൂട്ട് എലമെൻറുകൾ എന്തൊക്കെയാണെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ കാണുന്ന രണ്ട് തരം എലമെൻറുകൾ ഉണ്ട് ഒന്ന് പാസീവ് എലമെൻറ് മറ്റൊന്ന് ആക്ടീവ് എലമെൻറ് ആണ് അപ്പോൾ എന്താണ് ആക്ടീവ് എലമെൻറ് ഊർജ്ജം ഉൽപാദിപ്പിക്കാൻ കഴിവുള്ള എലമെൻറിനെ ആക്ടീവ് എലമെൻറ് എന്ന് വിളിക്കുന്നു അതേസമയം പാസീവ് എലമെൻറ് ഊർജ്ജം ഉൽപാദിപ്പിക്കുന്നില്ല അപ്പോൾ ആ പാസീവ് എലമെൻറുകൾ എന്തൊക്കെയാണ് ഇത് റെസിസ്റ്ററുകൾ കപ്പാസിറ്ററുകൾ ഇൻഡക്റ്ററുകൾ എന്നിവയാണ് ആക്ടീവ് എലമെൻറുകൾ എന്തൊക്കെയാണ് ജനറേറ്ററുകൾ ബാറ്ററികൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറുകൾ എന്നിവയാണ് ആക്ടീവ് എലമെൻറുകൾ അപ്പോൾ നമ്മുടെ സർക്യൂട്ട് വിശകലനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടീവ് എലമെൻറുകൾ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വോൾട്ടേജും കറണ്ടും ഉറവിടങ്ങൾ ആണ് കാരണം നിങ്ങൾ ഏതെങ്കിലും ഇലക്ട്രിക്കൽ സർക്യൂട്ട് വിശകലനം ചെയ്യുമ്പോൾ സാധാരണയായി വോൾട്ടേജും കറണ്ടും ഒരു ഉറവിടമായി വൈദ്യുതി വിതരണത്തിന് നൽകിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ രണ്ട് വ്യത്യസ്ത തരം ഉറവിടങ്ങളുണ്ടെന്ന് നിങ്ങൾ കാണും അതായത് സ്വതന്ത്രവും മറ്റൊന്ന് ആശ്രിതമായത് അതിനാൽ അനുയോജ്യമായ അവസ്ഥയിൽ അനുയോജ്യമായ സ്വതന്ത്ര ഉറവിടം മറ്റ് സർക്യൂട്ട് എലമെൻറുകളിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രമായ നിർദ്ദിഷ്ട വോൾട്ടേജ് അല്ലെങ്കിൽ കറൻറ് നൽകും ഈ സാഹചര്യത്തിൽ അനുയോജ്യമായ സ്വതന്ത്ര ഉറവിടം അതിന്റെ ടെർമിനൽ വോൾട്ടേജ് നിലനിർത്താൻ ആവശ്യമായ കറൻറ് നൽകുന്നു കാരണം അനുയോജ്യമായ വോൾട്ടേജ് ഉറവിടത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ടെർമിനൽ വോൾട്ടേജ് എല്ലായ്പ്പോഴും സ്ഥിരമായി നിലനിൽക്കുകയും അതിന് സർക്യൂട്ട് ലെ പവർ ബാലൻസ് സമവാക്യം തൃപ്തിപ്പെടുത്താൻ ആവശ്യമായ പവർ നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ ബാറ്ററികൾ പോലുള്ള ഭൌതിക സ്രോതസ്സുകൾ അനുയോജ്യമായ വോൾട്ടേജിന്റെ ഏകദേശ ഉറവിടങ്ങൾ ആയി കണക്കാക്കാം അവ അനുയോജ്യമായ വോൾട്ടേജ് സ്രോതസ്സുകളല്ല കാരണം ബാറ്ററിക്ക് അതിന്റേതായ നഷ്ടമുണ്ട് അത് കാരണം കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി വിതരണം ചെയ്യുന്നത് തുടരുമ്പോൾ ടെർമിനൽ വോൾട്ടേജ് താഴേക്കു പോകുകയും ചെയ്യും എന്നാൽ ഒരു പ്രായോഗിക ആവശ്യത്തിനായി നമുക്ക് ബാറ്ററിയെ അനുയോജ്യമായ വോൾട്ടേജ് ഉറവിടമായി കണക്കാക്കാം അതിനാൽ അനുയോജ്യമായ ആശ്രിത ഉറവിടത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഉറവിട അളവ് നിയന്ത്രിക്കുന്നത് മറ്റൊരു വോൾട്ടേജ് അല്ലെങ്കിൽ കറൻറ് എന്നാണ് അർത്ഥമാക്കുന്നത് അതിനർത്ഥം ഈ കാണുന്ന പ്രത്യേക ആശ്രിത വോൾട്ടേജ് ഉറവിടമോ അഥവാ ആശ്രിത കറൻറ് ഉറവിടമോ ആണെങ്കിൽ അതിന്റെ മൂല്യം മറ്റേതൊരു എലിമെൻറിൻറെയും ഔട്ട്പുട്ടിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് സർക്യൂട്ട് എലിമെൻറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസിൽ ഉടനീളം വോൾട്ടേജ് ഉറവിടത്തിൻറെ മൂല്യം റെസിസ്റ്റൻസ് ന് കുറുകെയുള്ള വോൾട്ടേജ് നഷ്ടത്തിൽ നിന്നായിരിക്കും കണ്ടുപിടിക്കുക അതിനാൽ സർക്യൂട്ടിൽ ആ ഉറവിടങ്ങൾ നിങ്ങൾ എങ്ങനെ കാണും ഇങ്ങനെയുള്ള എവിടെ ഉറവിടങ്ങൾക്കായി ചില ചിഹ്നങ്ങളുണ്ട് സ്വതന്ത്ര ഉറവിടങ്ങളുടെ കാര്യത്തിൽ ഇത് പൊതുവായതാണെന്ന് നിങ്ങൾ കാണും ഇതാണ് അനുയോജ്യ വോൾട്ടേജ് ഉറവിടങ്ങളായ ഡിസി വോൾട്ടേജ് ഉറവിടങ്ങൾ പിന്തുടരുന്ന പൊതുവായ കൺവെൻഷൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചിഹ്നം അനുയോജ്യമായ കറൻറ് ഉറവിടത്തെ പ്രതിനിധീകരിക്കുന്നു ആശ്രിത വോൾട്ടേജ് ഉറവിടങ്ങൾ ഒരു വജ്ര രൂപം ഉപയോഗിച്ചാണ് കാണിച്ചിരിക്കുന്നത് അതിനർത്ഥം നിങ്ങൾ പ്രാതിനിധ്യത്തിൽ വജ്ര രൂപത്തിലും അനുയോജ്യമായി വൃത്തരൂപത്തിലും കാണാം അതുപോലെ കറൻറിൻറെ കാര്യത്തിൽ ആശ്രിത കറൻറ് ഉറവിടങ്ങൾ ആയി നിങ്ങൾ ചതുരത്തെ കാണും അനുയോജ്യമായ കറൻറ് ഉറവിടങ്ങൾ വൃത്തത്തിലും കാണാം അതിനാൽ സർക്യൂട്ടിൽ ഒരു സ്വതന്ത്ര വോൾട്ടേജ് ഉറവിടം അഥവാ കറൻറ് ഉറവിടം അല്ലെങ്കിൽ ആശ്രിത വോൾട്ടേജ് അഥവാ കറൻറ് ഉറവിടം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അതിനാൽ ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം അടുത്ത സെഷനിൽ മറ്റ് എലമെൻറുകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം